അതിനാൽ അടുത്ത കാര്യങ്ങളിലേക്ക് മടങ്ങുക നിങ്ങൾ കാര്യങ്ങൾ ശരിയായി മനസിലാക്കുന്നുവെന്നും ഈ പോയിന്റുകളെല്ലാം ചിന്തിക്കുന്നുവെന്നും ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കായി നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ഇവയെല്ലാം എന്താണുള്ളതെന്ന് മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ വളരെയധികം സഹായിക്കും അടുത്തതായി ഇത് നൽകിയ വോൾട്ടേജ് പൾസ് എടുക്കും അതിനാൽ vt 0 എന്ന് നൽകിയിരിക്കുന്നു 0 ന് താഴെയുള്ള t ന് അതായത് പൾസ് ചരിത്രം vt 2t 0 മുതൽ 2 സെക്കൻറ് വരെയുള്ള സമയവുമായി രേഖീയ ബന്ധം പുലർത്തുന്നു നിങ്ങൾക്കു മറ്റൊരു കാര്യം നല്കിയിട്ടുള്ളത് vt 4 e പവർ t 2 t 2 നേക്കാൾ വലുതാകുമ്പോൾ ഇത് 2 കുറവ് t എന്നതിനേക്കാളും t 2 നെക്കാൾ വലുതാകുമ്പോൾ എന്ന രീതിയിലും പറയാം അതിനാൽ ഇവിടെ ഈ രീതിയിൽ 10 മൈക്രോഫറാഡ് കപ്പാസിറ്ററിലുടനീളം പ്രയോഗിക്കുന്നു ഈ സമയത്തേക്ക് 10 മൈക്രോഫറാഡ് കപ്പാസിറ്ററിൽ ഇത്തരത്തിലുള്ള വോൾട്ടേജ് പ്രയോഗിച്ചു എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് കപ്പാസിറ്ററിലൂടെ ഉള്ള വോൾട്ടേജ് കുറുകെ ഉള്ള കറന്റ് വരയ്ക്കുക അതായത് കപ്പാസിറ്ററിലൂടെ വൈദ്യുതധാര കടന്നുപോകുമ്പോൾ തന്നെ കപ്പാസിറ്ററിലുടനീളം ഉള്ള വോൾട്ടേജ് വരയ്ക്കുക ഇപ്പോൾ ഈ വോൾട്ടേജ് നൽകിയിരിക്കുന്നു അതിനാൽ ഈ വോൾട്ടേജ് 0 മുതൽ അനന്തത വരെ സ്കെച്ച് എളുപ്പത്തിൽ വരയ്ക്കുന്നു കാരണം ഇത് 2 ൽ കൂടുതലാണ് അതിനർത്ഥം2 t 0 മുതൽ 2 നുള്ളിൽ വരെ തുടർന്ന് 2 മുതൽ അനന്തത വരെ ഈ എക്സ്പോണൻഷ്യൽ കാര്യം പിന്നീട് ഇത് കാണും ആദ്യം ഞാൻ അത് മായ്ക്കട്ടെ അതായത് 10 മൈക്രോഫറാഡ് കപ്പാസിറ്റർ C മൂല്യത്തിന് ഇപ്പോൾ 10 മൈക്രോഫറാഡ് നൽകിയിരിക്കുന്നു I C dv dt 0 ൽ താഴെയുള്ള t ക്ക് അതിനാൽ ഇത് നൽകിയിരിക്കുന്നത് vt എന്നത് 0 t 0 ക്ക് താഴെ വരുമ്പോൾ അതായത് പൾസ് ചരിത്രം അതിനാൽ i 0 ഇപ്പോൾ അടുത്തത് 0 നും 2 നും ഇടയിൽ സി 10 10 പവർ 6 മൈക്രോഫറാഡ് ആണ് നിങ്ങളുടെ vt നല്കിയിട്ടുള്ളത് vt 2 t ആണ് അതിനർത്ഥം എന്റെ dv dt 2 ഉം ആ 2 ഇവിടെ C dv dt 2 ആണ് അതിനാൽ അതിനർത്ഥം C യഥാർത്ഥത്തിൽ 10 മൈക്രോഫറാഡ് ആണ് അതിനാൽ 10 10 പവർ 6 ഫറാഡ് ഇത് 20 മൈക്രോ ആമ്പിയർ ആയിരിക്കും നിങ്ങളുടെ ആ ഇടവേള 0 നും 2 നും ഇടയിലുള്ള വൈദ്യുതധാര ഇപ്പോൾ അടുത്തത് സമാനമായി ഞാൻ ഇത് മായ്ക്കട്ടെ അതുപോലെ dvdt ഇത് vt ആണ് നൽകിയിട്ടുള്ളതെങ്കിൽ ഈ പദപ്രയോഗം 4 e പവറിന് t 2 ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക അതിനാൽ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ അത് 4 e പവർ t 2 ഉം C 10 to 10 ഉം പവറും 6 അതിനാൽ 40 പവർ t 2 മൈക്രോഅമ്പിയർ t 2 ൽ കൂടുതൽ ആയിരിക്കുമ്പോൾ അതിനാൽ സമയ കണക്കുകൂട്ടൽ എല്ലാം നൽകിയിരിക്കുന്നത് ഡെറിവേറ്റീവ് എടുക്കുക എന്റെ v 2 t വോൾട്ടേജ് പ്ലോട്ട് മുകളിലേക്ക് നീങ്ങാൻ എന്നെ അനുവദിക്കുക അതിനാൽ ഈ vt അല്പം മുകളിലേക്ക് നീക്കുക അതിനാൽ ഇവിടെ ഇത് എന്റെ vtആണ് ഇത് യഥാർത്ഥത്തിൽ 2 ആയിരിക്കും 2 ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും അതിനാൽ ഇത് vt 2 t ഉം അടുത്തത് 2 ൽ നിന്ന് 0 നും 2 നും ഇടയിലാണ് കൂടാതെ 2 നെക്കാൾ വലുതാകുമ്പോൾ ഇത് നിങ്ങളുടെ vt ന് നൽകി 4 e പവറിന് t 2 ഇത് നൽകി ഇത് നിങ്ങളുടെ പ്ലോട്ട് ആദ്യ പ്രശ്നത്തിൽ നൽകിയിരിക്കുന്നത് ഇത് t സെക്കന്റാണ് അതിനാൽ ഇത് vt ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ t ന് 0 ൽ താഴെയുള്ള ടൈംപ്ലോട്ട് ഇത് 0 ആണ് അല്ലാത്തപക്ഷം 0 മുതൽ 2 വരെ ഇത് 20 മൈക്രോ ആമ്പിയർ ആണ് ഒപ്പം t നേക്കാൾ വലുതാണെങ്കിൽ 2 നേക്കാൾ വലുതാണ് അതിനാൽ ഇത് 40 പവർ t 2 ഇപ്പോൾ t 2 സെക്കന്റ് എന്ന് കരുതുക ഇത് നിങ്ങളുടെ it അത് 2 നു തുല്യം ആയിരിക്കും 40 കാരണം പവർ 0 അത് 2 ആയി മാറും അത് ഇതായിരിക്കും t 2 ന് 40 മൈക്രോഅമ്പിയർ അതിനാൽ അതിനർത്ഥം ആദ്യം 20 മൈക്രോഅമ്പിയർ അത് അടിസ്ഥാനപരമായി സ്ഥിരമാണ് അതിനാൽ 0 മുതൽ 2 വരെ ഞാൻ കുറച്ച് മുകളിലേക്ക് നീങ്ങട്ടെ അതിനാൽ ഇത് നിങ്ങളുടെ 0 മുതൽ 2 വരെയാണ് ഇത് നിങ്ങളുടെ 20 മൈക്രോഅമ്പിയർ ആണ് ഇപ്പോൾ പ്ലോട്ട് പൂർത്തിയായിട്ടില്ല ഇത് നിങ്ങളുടേതാണ് 10 20 പിന്നെ 30 എന്നിട്ട് അത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും 40 അത് L 40 ൽ നിന്ന് ആരംഭിക്കുന്നു എന്നിട്ട് ഇത് ഇതുപോലെ പോകും അതിനാൽ ഇത് കറന്റ് അതിനാൽ ഈ സമവാക്യത്തിൽ നിന്നുള്ള പ്ലോട്ട് ഇതാണ് അതിനാൽ ഇത് മനസിലാക്കും പ്രതീക്ഷിക്കുന്നു അടുത്തത് സീരീസ് സമാന്തര കപ്പാസിറ്ററുകൾ അതിനാൽ n കപ്പാസിറ്ററുകൾ ശ്രേണിയിൽ കണക്റ്റുചെയ്തിരിക്കുന്നതായി ചിത്രം 11 കാണിക്കുന്നു n കപ്പാസിറ്ററുകൾ ഓരോ കപ്പാസിറ്ററിലുടനീളം വോൾട്ടേജും v1 v2 v3 മുതൽ vn വരെ കപ്പാസിറ്ററുകൾക്കിടയിൽ kth ഉണ്ടെന്ന് കരുതുക ഞാൻ ഉദ്ദേശിക്കുന്നത് v1 v2 vn ഇതുപോലുള്ള എവിടെയോ kth കപ്പാസിറ്ററും അവിടെയുണ്ട് വോൾട്ടേജ് ബെയറിംഗ് vk ആണ് അതിനാൽ n ആണ് അവസാനത്തേത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങളുടെ 1 2 പിന്നെ 3 മുതൽ kth കപ്പാസിറ്റർ n വരെ അതിനാൽ എവിടെയോ kth കപ്പാസിറ്റർ ഉണ്ട് ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ഈ കപ്പാസിറ്ററുകളെല്ലാം ശ്രേണിയിലാണ് അതിനാൽ ആകെ വോൾട്ടേജ് V അതിൽ നിന്ന് ഞാൻ നിങ്ങൾക്കായി എഴുതട്ടെ കാരണം ഈ ഒരു കാര്യം നിങ്ങളുടെ v v1 v2 vk ഇതാണ് നിങ്ങളുടെ വോൾട്ടേജ് vt സപ്ലൈ വോൾട്ടേജ് V ആണ് അതിനാൽ ഇപ്പോൾ ഇവിടെ ഒരെണ്ണം നിർമ്മിക്കാൻ ഇതെല്ലാം തുല്യമായ സർക്യൂട്ട് ആണ് അതിനാൽ ഈ കപ്പാസിറ്ററിൽ ഏത് വോൾട്ടേജും പ്രയോഗിച്ചാലും അത് Ceq ആണെന്ന് പറയും ഒപ്പം ഈ വോൾട്ടേജുകളെല്ലാം V കറന്റ് ഒഴുകുന്നത് സ്വാഭാവികമായും ഇതിലുടനീളം വോൾട്ടേജാണ് ഇത് v ഉം ഈ കപ്പാസിറ്റർ capac Ceq തുല്യമായ സർക്യൂട്ടും ആയിരിക്കും അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ഇത് സീരീസ് കപ്പാസിറ്ററിന്റെ സീരീസ് കണക്റ്റർ തുല്യമായ സർക്യൂട്ട് ഈ തുല്യ സർക്യൂട്ട് ഇത് Ceq ആണ് അതിനാൽ v it ടൈം v1 v2 vn വരെ ഇപ്പോൾ kth കപ്പാസിറ്ററിന് വോൾട്ടേജ് v 1 c t 0 മുതൽ t it dt വരെ അറിയാം അതിനാൽ kth കപ്പാസിറ്റർ vk എഴുതുന്നതിനു പകരം ഇത് kth കപ്പാസിറ്ററിന്റെ മൂല്യം Ck 1 Ck സമയം t0 മുതൽ t വരെ dt vk t0 ആണ് കപ്പാസിറ്ററിലുടനീളം വോൾട്ടേജ് 0 ആയിരുന്നു അതുകൊണ്ടാണ് vk അനന്തത 0 ആയിരുന്നത് ഇവിടെ vk t0 മാത്രം സൂക്ഷിക്കുന്നു അതിനാൽ ഇത് സമവാക്യം 13 അതിനാൽ ഇത് vk യ്ക്കുള്ളതാണ് അതായത് v1 1 C1 t0 to t i it whatslide timecall dt v1 t0 അതുപോലെ തന്നെ v2 1 C2 എന്നിട്ട് t0 നിങ്ങളുടെ t it0 to t it dt എന്നിട്ട് v2 t0 ഇതുപോലെയാണ് കാരണം എല്ലാ കപ്പാസിറ്ററുകളും ശ്രേണിയിലാണ് ഞാൻ ഇത് മായ്ക്കട്ടെ v 1 C1 എഴുതാം t0 മുതൽ t i t dt v1 t0 വരെ ഇത് കപ്പാസിറ്റർ 1 നു ആണ് അതുപോലെ കപ്പാസിറ്റർ 2 ന് ഇത് 1C2 t0 മുതൽ t it dt v2 t0 വരെ അതിനാൽ സമാനമായി n th കപ്പാസിറ്ററിന് 1 CN t0 t it dt tn t0 ഇപ്പോൾ 1 C1 എടുക്കുക എല്ലാം t0 എന്ന പദത്തെ അതിലേക്ക് ശേഖരിക്കുക dt അതിനാൽ 1 C1 1 C2 1 CN t0 മുതൽ d t d1 v1 t0 v2 t0 മുതൽ vn t0 വരെ നിങ്ങൾക്ക് 1 Ceq എഴുതാം അതിനർത്ഥം Ceq തുല്യമായ t0 മുതൽ tit dt vt0 ഇത് സമവാക്യം 14 ഇപ്പോൾ vt0 v1 t0 v2 t0 vn t0 സർക്യൂട്ട് ഇതുപോലെയാണ് ഇതാണ് സർക്യൂട്ട് എല്ലാം t t0 ൽ ആരംഭിക്കുന്നു അത് v1 t0 v2 t0 v1 t0 ആണ് അതിനർത്ഥംvt0 ഇവിടെv1 t0 v2 t0 തുക ആയിരിക്കും അതിനാൽ ഇവിടെ ഇത് നിങ്ങളുടേ vt0 ഈ സമവാക്യം 14 നിങ്ങളുടെ സമവാക്യവുമായി താരതമ്യം ചെയ്യുക അതായത് 1 Ceq 1 C1 1 C2 1 CN വരെ ഇത് പരസ്പരവിരുദ്ധമായ സംഗ്രഹമാണ് സമാന്തരമായി ഈ പ്രതിരോധം പോലെയാണ് അതേ കാര്യം തന്നെ എന്നാൽ കപ്പാസിറ്റർ ശ്രേണിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ റെസിസ്റ്റർ സമാന്തര കോമ്പിനേഷന് തുല്യമായ പ്രതിരോധം ആയിരിക്കും ഗണിതശാസ്ത്രപരമായി അതിനാൽ ഇത് സീരീസ് കപ്പാസിറ്ററിന് തുല്യതാ സർക്യൂട്ട് നൽകുന്നു ശ്രേണിയിലെ കപ്പാസിറ്ററുകൾ ഉം സമാന്തരമായി ഉള്ള പ്രതിരോധം ഉം ഒരേ രീതിയിൽ സംയോജിപ്പിക്കുന്നു ശ്രേണിയിലായിരിക്കുമ്പോൾ കപ്പാസിറ്ററിന് അതേ രീതിയിൽ തുല്യമായ പ്രതിരോധം സമാന്തരമായി കണക്കുകൂട്ടാൻ കഴിയും അതിനർത്ഥം കപ്പാസിറ്റർ ഇവിടെ കപ്പാസിറ്റർ C1 C2 C3 പിന്നെ CN ഈ കപ്പാസിറ്റർ Cequivalent ആയിരിക്കും അതിനാൽ 1Ceq ഈ കപ്പാസിറ്റർ സീരീസ് ൽ വരുമ്പോൾ അത് 1C1 1C2 1C3 1CN സമാന്തരമായി ഉള്ള പ്രതിരോധം അതേ കണക്കുകൂട്ടലാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇതാണ് ഈ കപ്പാസിറ്റർ നിങ്ങളുടെ Ceq ഉം 1 Ceq ഇതാണ് അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ അതാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ C1 C2 C3 ഉം അറിയാമെങ്കിൽ അതിൽ നിന്ന് Ceq കണ്ടു പിടിക്കാം അതിനാൽ ഇതാണ് Rseries കണക്ഷൻ ഇപ്പോൾ കപ്പാസിറ്ററുകൾ സമാന്തരമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സമാന്തരമായി കണക്റ്റുചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ശ്രേണിയിലെ റെസിസ്റ്ററുകളെ സമാനമാക്കും കറന്റ് സോഴ്സ് എടുക്കുന്നില്ലെങ്കിൽ വെറും വിശകലനത്തിനായി C1 C2 CN വരെ കപ്പാസിറ്ററുകൾ സമാന്തരമായി എടുക്കുന്നു വോൾട്ടേജ് V ഉണ്ട് അങ്ങനെ സാഹചര്യത്തിൽഅവർ എല്ലാവരും സമാന്തരമായി ഉണ്ട് അതിനാൽ C1 C2 C3 ഈ വോൾട്ടേജ് v നൽകിയിട്ടുണ്ട് കാരണം എല്ലാം സമാന്തരമാണ് അതിനാൽ അതിനർത്ഥം വോൾട്ടേജ് സമാനമായി തുടരും ഇത് Ceq തുല്യമായ സമാന്തര കണക്ഷനാണ് അതിനാൽ ഗണിതശാസ്ത്രത്തിനായുള്ള i ഈ കറന്റ് i i i1 i2 iN വരെ ഈ കറന്റ് i i1 i2 i3 മുതൽ IN വരെയും i 1 C1 dv dt കാരണം C2 കാരണം വോൾട്ടേജ് സമാന്തരമായി കണക്ട് ചെയ്താൽ താഴുന്നു അതിനാൽ എല്ലാ കപ്പാസിറ്ററും കാരണം വോൾട്ടേജ് v സമാനമായിരിക്കും അങ്ങനെ അത് C1 dvdt C2 dvdt ആയിരിക്കും CN dvdt വരെ നമുക്കു എഴുതാൻ കഴിയും C1 C2 CN dvdt വരെ അല്ലെങ്കിൽ i Ceq dvdt അതിനർത്ഥം Ceq C1 C2 മുതൽ CN വരെ ഇത് സംഗ്രഹിക്കുന്നു അതിനർത്ഥം ശ്രേണിയിൽ റെസിസ്റ്റർ ഉള്ളപ്പോൾ r 1 r 2 സംഗ്രഹിക്കുന്നപോലെ rn വരെ കപ്പാസിറ്ററുകൾ സമാന്തരമായിരിക്കുമ്പോൾ അവയുടെ മൂല്യം സംഗ്രഹിക്കും സമാന്തരമായിരിക്കുമ്പോൾ കപ്പാസിറ്ററുകളുടെ കാര്യത്തിൽ സീരീസിലെ പ്രതിരോധം ചെയ്യുന്ന രീതിയാണ് അവയുടെ ആകെത്തുക കണ്ടു പിടിച്ചാൽ മതിയാകും അതിനാൽ കപ്പാസിറ്ററുകൾ സമാന്തരമായി ശ്രേണിയിലെ റെസിസ്റ്ററിന്റെ അതേ രീതിയിൽ സംയോജിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക അതിനാൽ ഇവിടെയും ഇത് തുല്യമായ സർക്യൂട്ടും Ceq C1 C2 C3 CN വരെ അതിനാൽ തുല്യമായ കപ്പാസിറ്റർ ലോഡ് കണ്ടെത്തുന്നതിന് സർക്യൂട്ട് ടെർമിനലുകൾ 1 നും 2 നും ഇടയിൽ കാണുന്ന നിങ്ങളുടെ തുല്യ കപ്പാസിറ്റൻസ് capacitanceകണ്ടെത്തുക 5 മൈക്രോഫാരഡും 20 മൈക്രോഫാരഡും ശ്രേണിയിലാണെന്ന സർക്യൂട്ടിലെ ഇവിടെ ഇതിനർത്ഥം റെസിസ്റ്ററുകൾ സമാന്തരമായിരിക്കുമ്പോൾ പോലെ സംയോജിപ്പിക്കുക അതിനാൽ ഇത് തുല്യമായിരിക്കും 5 20 5 20 മൈക്രോഫറാഡിലാണ് കാരണം ഇവ 2 സീരീസ് ആണ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി നിങ്ങളുടെ 25 ഉം 100 ഉം ആയിരിക്കും ഇത് 4 മൈക്രോഫറാഡായി മാറും അവയുടെ തുല്യത 4 മൈക്രോഫറാഡുകളാണെങ്കിൽ എന്ത് സംഭവിക്കും അതിനർത്ഥം ഈ 4 മൈക്രോഫറാഡും 6 മൈക്രോഫാരഡും 20 മൈക്രോഫാരഡും സമാന്തരമാണ് സമാന്തരമെന്നാൽ ഒരു സംയോജനം വെറും സങ്കലനം മാത്രമാണ് അതിനാൽ ഈ 4 മൈക്രോ ഫറാഡിന് തുല്യമായതിനാൽ അതിന്റെ സമാന്തര അർത്ഥം ഇത് ഒരു സംയോജനമാണ് അതിനാൽ ഇത് നിങ്ങളുടെ 4 6 20 30 മൈക്രോഫറാഡാണ് അതിനാൽ ഈ 60 ഉം 30 ഉം വീണ്ടും ഇവിടെ സീരീസിലാണ് അതിനാൽ ആ ഒരു റെസിസ്റ്ററിന്റെ സമാന്തര കോമ്പിനേഷൻ പോലെ അതിനാൽ ഇത് 30 മൈക്രോ ഫാരഡുകളായിരിക്കും വീണ്ടും 60 30 ഇത് സമാന്തരമായിരിക്കുന്നതിനാൽ ഇത് കൂട്ടിച്ചേർക്കുന്നതിനാൽ ഇത് ശ്രേണിയിലായിരിക്കും അതിനാൽ ആ സമയത്ത് അത് 60 30 60 30 ആയിരിക്കും 90 അതിനർത്ഥം ഇത് നിങ്ങളുടെ 20 മൈക്രോഫറാഡിന് തുല്യമായിരിക്കും അതിനുള്ള ഉത്തരം Ceq ആയിരിക്കും പരിഹാരം പിന്നീട് അവിടെയുണ്ട് ഈ 20 ഉം 5 ഉം സമാന്തരമാണ് അതിനാൽ ഇത് 4 മൈക്രോഫറാഡ് ആയിരിക്കും ഇപ്പോൾ 4 മൈക്രോഫറാഡ് 6 മൈക്രോഫറാഡിന് സമാന്തരമാണ് 20 മൈക്രോഫറാഡ് കപ്പാസിറ്റർ എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് അവയുടെ സംയോജനം 30 മൈക്രോഫാരഡ് കപ്പാസിറ്റർ 60 മൈക്രോഫറാഡ് കപ്പാസിറ്ററുമായി സീരീസ് എന്നതിനർത്ഥം ഇത് സമാന്തരമായി നിങ്ങൾ കണ്ടെത്തുന്ന റെസിസ്റ്റൻസ് ന്റെ തുല്യത പോലെയാണ് അതിനാൽ 30 60 30 60 അതിനാൽ 20 മൈക്രോഫറാഡ് അടുത്തത് മറ്റൊരു ഉദാഹരണമാണ് അതിനാൽ ചിത്രം 14 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് ഓരോ കപ്പാസിറ്ററിലുമുള്ള വോൾട്ടേജ് നിർണ്ണയിക്കുന്നതിനുള്ള മറ്റൊരു ഉദാഹരണമാണിത് അതിനാൽ ഇത് ഒരു സർക്യൂട്ടിന് 300 വോൾട്ട് നൽകിയിട്ടുണ്ട് ഇത് v1 v2 ആണ് ഈ വോൾട്ടേജ് വി1 ഉം വി 4 ഉം എല്ലാ കപ്പാസിറ്റർ മൂല്യത്തിനും 20 മൈക്രോഫാരഡ് 30 മൈക്രോഫറാഡ് 40 മൈക്രോഫറാഡ് നൽകിയിട്ടുണ്ട് വീണ്ടും ഇവിടെ 20 മൈക്രോഫാരഡ് ഈ ലൂപ്പ് നൽകുന്നു ഈ 20 ഉം 40 ഉം സമാന്തരമാണ് അതിനാൽ എപ്പോൾ 40 ഉം 20 ഉം മൈക്രോഫറാഡ് സമാന്തരമായിരിക്കും അവയെ 40 20 ചെയ്തു അതിനാൽ 60 മൈക്രോഫറാഡ് പിന്നീട് 60 30 ഉം 20 ഉം ശ്രേണിയിലാണുള്ളത് ഇവ സമാന്തരവും 40 20 60 മൈക്രോഫറാഡും പിന്നീട് 60 30 ഉം 20 ഉം ശ്രേണിയിലാണ് അതിനർത്ഥം തുല്യമായത് കണ്ടു പിടിക്കുക ആ Ceq 1C1 1C2 1C3 തുല്യമായിരിക്കും അത് 10 മൈക്രോ ഫറാഡ് നൽകും കാരണം ഇവിടെ ഈ 2 ഉം സമാന്തരമാണ് അവയുടെ തുല്യത 40 20 60 മൈക്രോഫറാഡാണ് ഇപ്പോൾ 20 30 60 അവ ശ്രേണിയിലാണ് അതിനർത്ഥം 1 Ceq 120 130 160 Ceq 120 ഇത് വായിക്കാൻ കഴിയുന്ന പ്രതീക്ഷിക്കുന്നു ഞാൻ സർക്യൂട്ടിൽ വരയ്ക്കുന്നു 160 പവർ 1 അതിനാലാണ് പരസ്പരവിരുദ്ധമായത് 1 നൽകിയിരിക്കുന്നു അത് നിങ്ങളുടെ 10 മൈക്രോഫാരഡ ആണ് ഇപ്പോൾ ആകെ ചാർജ് q Ceq v ആണ് കാരണം ഇത് Ceq മൊത്തം ചാർജ് q Ceq v ഉം v ന് 300 വോൾട്ടും 10 മൈക്രോഫാരഡും ആണ് അതിനാൽ 10 10 പവറിന് 6 ഫറാഡ് 300 കൂലോംബ് അതിനാൽ 3 10 2 പവർ 3 കൂലോംബ് അതായത് q മൊത്തം ചാർജ് ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ 20 മൈക്രോഫറാഡിലും 30 മൈക്രോഫറാഡ് കപ്പാസിറ്ററിലുമുള്ള ചാർജാണ് കാരണം അവ 300 വോൾട്ടേജ് സ്രോതസ്സുകളുള്ള ശ്രേണിയിലാണ് 20 30 മൈക്രോഫറാഡ് കപ്പാസിറ്ററുകൾ ശ്രേണിയിലാണുള്ളത് യഥാർത്ഥത്തിൽ കണ്ടെത്തിയതെന്തും അടിസ്ഥാനപരമായി തുല്യമായ കപ്പാസിറ്ററിൽ നിന്നുള്ള മൊത്തം ചാർജാണ് അതിനാൽ ഇത് നിങ്ങളുടെ 20 ലെ ചാർജാണ് ഇത് ചാർജും 20 മൈക്രോഫാരഡും 30 മൈക്രോഫറാഡ് കപ്പാസിറ്ററുമാണ് കാരണം അവ 300 വോൾട്ട് ഉറവിടവുമായി ശ്രേണിയിലായതിനാൽ q cv സമവാക്യം അതിനാൽ v1 q C1 ആയിരിക്കും q 1 ഇത് ലഭിച്ചു അതിനാൽ ഇത് 150 വോൾട്ട് ആണ് v2 q C2 ആയിരിക്കും ഇത് 100 വോൾട്ട് ആയിരിക്കും v1 v2 യഥാക്രമം 150 100 വോൾട്ട് ലഭിച്ചു എളുപ്പത്തിൽ v1 v 4 നു കെവിഎൽ പ്രയോഗിക്കുക ഇപ്പോൾ ഈ സമവാക്യത്തിൽ KVL ഇതുപോലെ ഘടികാരദിശയിൽ നീങ്ങുന്നു ഇത് v1 v2 v1 300 0 ആയിരിക്കും അതിനർത്ഥം എന്റെ v1 നിങ്ങളുടെ 300 v1 v2 ഇത് v1 v2 ആണ് കൂടാതെ ഈ 2 കപ്പാസിറ്ററുകളും സമാന്തരമാണ് അതിനർത്ഥം v1 v 4 കാരണം ഈ 2 ഉം സമാന്തരമാണ് അതിനാൽ ആ കണക്കുകൂട്ടലിലേക്ക് പോകുക അങ്ങനെ അത് 300 ആയിരിക്കും ഇവിടെ 50 വോൾട്ട് v1 v1 C3 c 4 എന്നിവ സമാന്തരമായി ഒരേ വോൾട്ടാജിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നു അതിനാൽ v1 v 4 50 വോൾട്ട് അടുത്തത് ചിത്രം 15 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് പരിഗണിക്കുകt0 t 0 ന്കപ്പാസിറ്റർ C1 ഒരു വോൾട്ടേജിലേക്ക് ചാർജ്ജ് ചെയ്യപ്പെടുന്നു v1 100 വോൾട്ട് മറ്റ് കപ്പാസിറ്ററിന് ചാർജ് ഇല്ല v2 0 ചാർജ്ജ് ചെയ്യാത്ത ആണ് T 0 ന് സ്വിച്ച് അടയ്ക്കുന്നതിന് മുമ്പും ശേഷവും കപ്പാസിറ്റർ സംഭരിച്ച മൊത്തം ഊർജ്ജം കണക്കാക്കുന്നു അതിനാൽ ഈ ചിത്രം പറയുന്നത് സ്വിച്ച് അടയ്ക്കുന്നതിന് മുമ്പ് വോൾട്ടേജ് v1 ഇവിടെ 100 വോൾട്ട് v2 0 വോൾട്ട് കപ്പാസിറ്റർ ചാർജ് ചെയ്യാത്തതാണെന്ന് ആയിരുന്നു ആദ്യം സ്വിച്ച് അടയ്ക്കുന്നതിന് മുമ്പ് കണക്കാക്കേണ്ടത് ഊർജ്ജവും സ്വിച്ച് അടച്ചതിനുശേഷം എന്താണ് ഈ രണ്ടും 1 മൈക്രോഫാരഡ് വീതമാണ് എന്നാൽ ഇവിടെ v1 വോൾട്ടേജ് സ്വിച്ച് അടയ്ക്കുന്നതിന് മുമ്പ് നൽകപ്പെടുന്നു അത് 100 വോൾട്ട് ആണ് എന്നാൽ ഇവിടെ v2 0 ഇതിനായി ഇത് പകുതി C1 v1 2 ആയിരിക്കും അത് പകുതി 10 പവറിന്റെ 6 ആയിരിക്കും 100 2 കാരണം v1 ഇവിടെ 100 വോൾട്ടും ഉം ഇവിടെ 0 ഉം ആണ് നിങ്ങളുടെ പ്രാരംഭഊർജ്ജം സ്വിച്ച് പകുതി അടയ്ക്ക്കുന്നതിനു മുമ്പ് C1 v1 2 അതിനാൽ ഇത് 5 10 പവറിന്റെ 3 ജൂൾ വരുന്നു രണ്ടാമത്തെ കേസ് വോൾട്ടേജ് v2 0 ആയിരുന്നു അതിനാൽ പകുതി C2 v22 0 അതിനാൽ നേരിട്ട് ഇത് എഴുതുന്നു 0 അതിനാൽ മൊത്തം ഊർജ്ജം w w 1 w 2 അത് പവറിന് 5 10 പവറിന്റെ 3 ജൂൾ ആണ് ഇതാണ് മൂല്യം ഇപ്പോൾ വോൾട്ടേജ് കണ്ടെത്താനുള്ള കാര്യം സ്വിച്ച് അടച്ചതിനുശേഷം വോൾട്ടേജും സംഭരിച്ച ഊർജ്ജവും കണ്ടെത്തുന്നതിന് സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ടോപ്പ് പ്ലേറ്റിലെ മൊത്തം ചാർജ് മാറാൻ കഴിയില്ല എന്ന വസ്തുത ഉപയോഗപ്പെടുത്തുന്നു വാസ്തവത്തിൽ ഇത് ശരിയാണ് കാരണം സർക്യൂട്ടിന്റെ മുകൾ ഭാഗം വിടാൻ ചാർജിന് പാതയില്ല അതിനാൽ മുകളിലെ പ്ലേറ്റുകളിലെ മൊത്തം ചാർജ് സ്വിച്ച് അടയ്ക്കുമ്പോൾ മാറ്റാൻ കഴിയില്ല അതിനാൽ വാസ്തവത്തിൽ ഇത് ശരിയാണ് കാരണം സർക്യൂട്ടിന്റെ മുകൾ ഭാഗം വിടുന്നതിന് ചാർജിന് പാതയില്ല ഇപ്പോൾമുകളിൽപ്ലേറ്റ് C1 സംഭരിച്ചിരിക്കുന്ന ചാർജ് t0 ക്ക്മുൻപ് നൽകിയ Q 1 C1 v1 ആണ് C1 1 മൈക്രോ ഫരദ് ആണ് അതിനാൽ 1 10 പവറിലേക്ക് 6 100 അതായത് 100 മൈക്രോ കൂളമ്പ് അത് മുകളിലുള്ള പ്ലേറ്റുകളിൽ C1 ൽ സംഭരിച്ചിരിക്കുന്ന ചാർജാണ് അതുപോലെ Q2 ന് C2 ൽ ചാർജ് 0 യഥാർത്ഥത്തിൽ പ്രാരംഭ ചാർജ് 0 അതിനാൽ ഞാൻ C2 0 എഴുതരുത് ഞാൻ എഴുതുന്നത് C2 പ്രാരംഭ ചാർജ് 0 അല്ലാത്തപക്ഷം അത് വ്യത്യസ്ത അർത്ഥം വഹിക്കും അതിനാൽ q 2 0 അങ്ങനെ സ്വിച്ച് അടച്ചതിനുശേഷം തുല്യമായ കപ്പാസിറ്റൻസിലെ ചാർജ് സ്വിച്ച് അടയ്ക്കുമ്പോൾ തുല്യ കപ്പാസിറ്റൻസിലെ ചാർജ് അത് q 1 ആയിരിക്കും അത് q 1 q 2 ആയിരിക്കും കൂടാതെ 100 മൈക്രോ കൂലോംബ് ആയിരിക്കും അതിനാൽ ഇത് 100 മൈക്രോ കൂളമ്പാണ് സ്വിച്ച് അടച്ചതിനുശേഷം ഇപ്പോൾ ശ്രദ്ധിക്കുക കപ്പാസിറ്ററുകൾ സമാന്തരമാണ് അതായത് സർക്യൂട്ടിലേക്ക് തിരികെ നോക്കുകയാണെങ്കിൽ സ്വിച്ച് അടയ്ക്കുമ്പോൾ അത് പറയുക സ്വിച്ച് അടയ്ക്കുമ്പോൾ ഈ C1 ഉം C2 ഉം സമാന്തരമായിരിക്കും അതിനർത്ഥം രണ്ടും തുല്യമാണ് അതായത് ഇത് C1 C2 ആയിരിക്കും അതായത് ഇത് 2 മൈക്രോഫറാഡായി മാറും കാരണം സ്വിച്ച് അടയ്ക്കുമ്പോൾ രണ്ടും സമാന്തരമായിരിക്കും ഇവിടെ ഈ കപ്പാസിറ്ററുകൾ സമാന്തരമായി തുല്യമായ കപ്പാസിറ്റൻസ് 2 മൈക്രോഫറാഡാണ് ഇപ്പോൾ തുല്യത കപ്പാസിറ്റൻസിലുടനീളമുള്ള വോൾട്ടേജ് ഇപ്പോൾ v eq q eq Ceq ആയിരിക്കും അതിനാൽ v eq 100 മൈക്രോ കൂലോംബും Ceq 2 മൈക്രോഫറാഡും അതിനാൽ ഇത് അടിസ്ഥാനപരമായി 100 2 ആണ് കാരണം മൈക്രോ കൂലോംബും മൈക്രോഫറാഡും ആണെങ്കിൽ പവർ 10 ലേക്ക് മൈക്രോ 6 റദ്ദാക്കുക അതിനാൽ ഇത് 50 വോൾട്ട് ആയിരിക്കും സ്വിച്ച് അടച്ചതിനുശേഷം v1 v2 v eq കാരണം അവ സമാന്തരമാണ് അതിനാൽ രണ്ട് വോൾട്ടേജും തുല്യമായിരിക്കും ഇപ്പോൾ സംഭരിച്ച ഊർജ്ജം സ്വിച്ച് അടച്ച് കണക്കുകൂട്ടുക ഇപ്പോൾ സ്വിച്ച് അടച്ച w 1 പകുതി C1 v eq 2 ആയിരിക്കുമെന്നതിനാൽ ഇത് പവറിന്റെ പകുതി 10 6 ആയിരിക്കും 1 10 പവറിന് 6 50 2 അതിനാൽ 1 25 10 പവറിന് 3 അത് ജൂൾ ആണ് അതുപോലെ w 2 പകുതി C2 v eq 2 പകുതി 1 10 പവർ 6 50 2 അതായത് 1 25 10 പവർ ജൂൾ 3 ജൂൾ ഇപ്പോൾ മൊത്തം ഊർജ്ജം w 1 w 2 അത് പവറിന് 2 5 10 3 ജൂൾ ആയിരുന്നു അതായത് സ്വിച്ച് അടയ്ക്കുന്നതിന് മുമ്പ് ഇത് 5 10 പവറിന് 3 ജൂൾ ആയിരുന്നു അതായത് സ്വിച്ച് അടയ്ക്കുന്നതിന് മുമ്പായിരുന്നു എന്നാൽ സ്വിച്ച് അടച്ചതിനുശേഷം അത് പവറിൽ 2 5 10 3 ജൂൾസ് വരുന്നു അതിനർത്ഥം ഊർജ്ജ ബാലൻസ് ഇല്ല അതായത് ഊർജ്ജം പോയ സ്ഥലത്ത് 50 ശതമാനം ഊർജ്ജം നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ ഈ പ്രശ്നം എടുത്തത് ഈ ഊർജ്ജം പോയ ഇടത്തേക്ക് ഇത് ന്യായീകരിക്കാൻ ഇത് ചെയ്യുക അതിനാൽ സ്വിച്ച് അടച്ചതിനുശേഷം സംഭരിച്ച ഊർജ്ജം സ്വിച്ച് അടയ്ക്കുന്നതിന് മുമ്പായി മൂല്യത്തിന്റെ പകുതിയാണെന്ന് കാണുക അതിനാൽ കാണാതായ ഊർജ്ജത്തിന് എന്ത് സംഭവിക്കും കാരണം 50 ശതമാനം കാണുന്നില്ല ഈ ചോദ്യത്തിനുള്ള ഉത്തരം സമാന്തരമല്ലാത്തവയിൽ ആഗിരണം ചെയ്യപ്പെടുന്നു എന്നതാണ് നിങ്ങളുടെ പരാന്നഭോജികളുടെ ഇൻഡക്റ്റൻസിൽ ആഗിരണം ചെയ്യപ്പെടുന്ന പരാന്നഭോജികളുടെ പ്രതിരോധം ഞാൻ ഇടുകയില്ല ഇത് നിർമ്മിക്കുന്നത് അസാധ്യമായ പരാന്നഭോജി ഇൻഡക്റ്റൻസികളാണ് അതിനാൽ ചില പരാന്നഭോജികൾ ഉണ്ട് ഉദാഹരണത്തിന് ഒരു കപ്പാസിറ്ററിന്റെ കൂടുതൽ പൂർണ്ണമായ സർക്യൂട്ട് മോഡലിൽ ഇതുപോലെ കാണിക്കുന്നു ഇത് എന്റെ C ആണ് പക്ഷേ Rs Ls ഉം Rp ഉം ഉണ്ട് കാരണം ഫോയിലുകളിൽ നിങ്ങളുടെ ചില പ്രതിരോധം കാണും പ്രതിരോധം Rs എടുക്കുക കപ്പാസിറ്ററിന്റെ പ്ലേറ്റ് ലഭിക്കുന്നിടത്ത്കപ്പാസിറ്ററിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയ്ക്ക് ചില കാന്തികക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കണം കാരണം ചില പരാന്നഭോജികളുടെ ഇൻഡക്റ്റൻസും അവിടെ ഉണ്ടാകും വളരെ മൂല്യമുള്ളതെല്ലാം വളരെ ചെറുതാണെങ്കിലും അതിനിടയിൽ ഒരു വസ്തുവും ശുദ്ധമായ ഇൻസുലേറ്ററല്ല എന്നതിനാൽ ചില ചാലകങ്ങൾ ഉണ്ടാകും അതിനാൽ സമാന്തര പ്ലേറ്റുകൾക്കിടയിൽ ഡീലക്ട്രിക് എടുക്കുന്നു പക്ഷേ ചില ചാലകങ്ങൾ ഉണ്ടാകും കാരണം ചില Rp പ്രതിരോധം കാണും അതുകൊണ്ട് എന്തുകൊണ്ട് ഈ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ളിൽ യഥാർത്ഥത്തിൽ ഇവിടെ മൊത്തമായി Ls Rs അവഗണനയില്നിന്നും വേണ്ടിഎന്നതാണ് അല്ലാത്തപക്ഷം 50 ശതമാനം ഊർജ്ജം നഷ്ടപ്പെട്ടതായി കണ്ടെത്തി യഥാർത്ഥത്തിൽ ഇത് പരാന്നഭോജികളിലെ ഇൻഡക്റ്റൻസുകളിലാണെന്ന് കണ്ടെത്തി കാരണം അത് നഷ്ടമായതിനാൽ അതിനർത്ഥം ചിലത് സൂക്ഷിച്ചിരിക്കുന്നയിടത്ത് പരാന്നഭോജികളുടെ ഇൻഡക്റ്റൻസുകളിൽ ആയിരിക്കും അതുകൊണ്ടാണ് ഈ ഉദാഹരണം എടുക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു സമാന്തര കപ്പാസിറ്ററിന്റെ പൂർണ്ണ രേഖാചിത്രമാണ് പക്ഷേ Rs Ls Rp എന്നിവ അവഗണിക്കപ്പെടും ഇപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷേ സമയക്രമീകരണം അതിലൂടെ കടന്നുപോകുക അതിനാൽ ഞാൻ ഇത് കുറച്ച് പതുക്കെ നീക്കുന്നു അതിനാൽRs Ls Rp സർക്യൂട്ട് മോഡലിലെ പരാന്നഭോജികളുടെ ഇൻഡക്റ്റൻസിന് 50 ശതമാനം ഊർജ്ജം നഷ്ടമാകില്ലായിരുന്നു ഊർജ്ജം പോയി 5 മൈക്രോഫറാഡ് കപ്പാസിറ്ററിന്റെ ടെർമിനലുകളിൽ മതിപ്പുളവാക്കുന്ന ഇനിപ്പറയുന്ന സമവാക്യം വിവരിച്ച വോൾട്ടേജ് പൾസ് അതിനാൽ vt 0 വോൾട്ട് ആണ് കാരണം യഥാർത്ഥത്തിൽ ഇവിടെ ഇത് ഒരു മിനിറ്റ് മാത്രമായിരിക്കും ഇത് ഈ നിർമ്മാണത്തേക്കാൾ t കുറവായിരിക്കും അതിനാൽ 0 ന് 0 വോൾട്ട് 0 നും 40 സെക്കന്റിനും ഇടയിൽ 0 നും 1 സെക്കന്റിനും 4 e t മുതൽ 1 വോൾട്ട് 20 വരെ 1 നും അനന്തത 1 നും ഇടയിൽ t വലുതാണ് 1 നേക്കാളും അതിനാൽ ഇവയെല്ലാം കപ്പാസിറ്ററിന്റെ കറന്റ് ഊർജ്ജത്തിനും പദപ്രയോഗം കണ്ടെത്തുന്നതിന് ഇത് ഇപ്പോൾ ഒരു സ്കെച്ച് ബി ഊർജ്ജത്തെ സമയത്തിന്റെ പ്രവർത്തനമായി വരയ്ക്കുന്നു സി സമയ ഇടവേള വ്യക്തമാക്കുക കപ്പാസിറ്ററിൽ ഊർജ്ജം സംഭരിക്കുന്നു 0 മുതൽ 1 പിഡിടി വരെയും 1 മുതൽ അനന്തമായ പിഡിടി വരെയുമുള്ള ഇന്റഗ്രലുകൾ വിലയിരുത്തി അവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായമിടുക